എൻജിനിയറിംഗ് മാത്തമാറ്റിക്സ് I ന്റെ ലെക്ചറുകളിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ഇരുപതാമത്തെ ലക്ചർ ആണ് ഇന്ന് നമുക്ക് നിയന്ത്രിത മാക്സിമയും മിനിമയും ചർച്ച ചെയ്യാം ഫംഗ്ഷന്റെ കൂടെ ചില പരിധികൾ കൂടെയുള്ള പ്രശ്നങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ലഗ്രാഞ്ച് ഗുണിത സംഖ്യ Lagrange's multiplier ഉപയോഗിച്ചുള്ള മാർഗമാണ് പ്രത്യേകം പറയുന്നത് ഇനി എന്താണ് ഈ ലാഗ്റേഞ്ച് ഗുണിത സംഖ്യ വച്ചുള്ള മാർഗം ഞാൻ ഈപ്രശ്നം ചർച്ച ചെയ്യട്ടെ ufxy എന്ന ഫംഗ്ഷൻ എടുക്കാം അതിന് ϕxy0 എന്ന മറ്റു ചില നിബന്ധനകളും ഉണ്ട് ഇനി ഇതിന്റെ മാക്സിമയോ മിനിമയോ നിങ്ങൾക്ക് കാണണം ഇവിടെ നമുക്ക് x y ലുള്ള ചില ബന്ധങ്ങളും വ്യവസ്ഥകളും തന്നിട്ടുണ്ട് അടിസ്ഥാനപരമായി ഇത് നമ്മൾ പഴയ ലക്ചറിൽ ചർച്ച ചെയ്തപ്രശ്നത്തിന് സമാനമാണ് അവിടെ നമ്മൾ പരിധികൾ കൂടെ കണക്കിൽ എടുത്തിരുന്നു x y എന്നത് ഒന്നുകിൽ x0 അല്ലെങ്കിൽ y0 അതുമല്ലെങ്കിൽ അവിടെ y9 x എന്ന ഒരു വരെയുണ്ട് എന്നിങ്ങനെ ഫംഗ്ഷന്റെ കൂടെ അധിക വ്യവസ്ഥയായിട്ട് നൽകാറുണ്ട് ആ പരിധികൾ ഫംഗ്ഷന്റെ മുകളിലുള്ള അധിക പരിധികളാണ് അവിടെ നമ്മൾ fx y യിൽ y യുടെ മുല്യം പകരം നൽകുകയും പിന്നീട് അത് ഒരു ഏക വേരിയബിളിൽ ഉള്ള ഫംഗ്ഷന്റെപ്രശ്നം ആവുകയും ചെയ്യും ഇത് ഈ ഓരോ വ്യവസ്ഥകളുടെ മേലിലും നമ്മൾ ചർച്ച ചെയ്തു ഇന്ന് നമ്മൾ y യുടെ മൂല്യം ഇതിൽ പകരം നൽകാതെ ഏക വേരിയബിളിലെ ഫംഗ്ഷൻ ലഭിച്ചതിനുശേഷം എക്സ്ട്രീമക്ക് വേണ്ടി പോവാതെ ഈ ലാഗ്റേഞ്ച് ഗുണിത സംഖ്യ വെച്ചുള്ള മാർഗമാണ് ഉപയോഗിക്കുന്നത് ഈയൊരു അവസ്ഥയിൽ പകരം മൂല്യം നൽകാതെ തന്നെ നേരിട്ട് എല്ലാ ക്രിട്ടിക്കൽ പോയന്റുകളും ലഭിക്കും അതായത് ഫംഗ്ഷൻ മാക്സിമമോ മിനിമമോ സാഡിൽ പോയിന്റോ കൈവരിക്കും ഞാൻ ഈ ലാഗ്റേഞ്ച് ഗുണിത സംഖ്യ മാർഗ്ഗം ഒന്ന് വിശദീകരിക്കട്ടെ ചെയിൻ റൂൾ പ്രകാരം ഈ ufxy എന്നതിൽ നിന്നും dudx നേരിട്ട് ലഭിക്കും കാരണം ഈ y x ന്റെ ഒരു ഫംഗ്ഷൻ ആയതുകൊണ്ട് x ന്റെയും y ന്റെയും ഇടയിൽ നമുക്ക് ഈ ബന്ധം ലഭിക്കും അപ്പോൾ ഈ y യെ ഒഴിവാക്കുന്നതിലൂടെ നമുക്ക് അടിസ്ഥാനപരമായി x ലെ ഒരു ഫംഗ്ഷൻ ലഭിക്കും അപ്പോൾ ഈ dudx ഇവിടെ ഒരു അർത്ഥമുണ്ടാക്കും പക്ഷേ ചെയിൻ റൂളിന്റെ നിയമം ഉപയോഗിച്ച് അല്ലെങ്കിൽ അതിന്റെ ആശയം ഉപയോഗിച്ച് ഈ ഡെറിവേറ്റീവിനെ നമുക്ക് ഭാഗിക ഡെറിവേറ്റീവിന്റെ അടിസ്ഥാനത്തിൽ ലഭിക്കും അപ്പോൾ x ന് അനുസൃതമായിട്ടുള്ള f ന്റെ ഭാഗിക ഡെറിവേറ്റീവ് ശേഷം dudx എന്നത് ഒന്നാണ് അപ്പോൾ അതിലേക്ക് ഈ y ക്ക് അനുസൃതമായിട്ടുള്ള f ന്റെ ഭാഗിക ഡെറിവേറ്റീവും പിന്നെ dydx ഉം ഉണ്ട് ഈ dydx കൊണ്ടും എക്സ്ട്രീമയിലെ പോയന്റിൽ dydx പൂജ്യം ആയിരിക്കണം എന്നതുകൊണ്ടും ഇത് ഏക വേരിയബിൾപ്രശ്നമാണ് ഇവിടെ നമുക്ക് dydx ലഭിക്കണം അത് എക്സ്ട്രീമയിലെ പോയന്റിൽ 0 ആവുകയും വേണം അപ്പോൾ നമുക്ക് ഈ പോയന്റിൽ ഈ ഡെറിവേറ്റീവ് പൂജ്യം ആവണമെന്ന് കിട്ടി അതായത് ∂f∂x∂f∂y dydx0 എന്നത് dydx0 ആവണം എന്നാവും ഈ എക്സ്ട്രീമയിലെ പോയന്റിൽ നമുക്ക് ∂f∂x∂f∂y dydx0 ആണ് അപ്പോൾ ഇത് ഒരു വ്യവസ്ഥയാണ് ഒരു സമവാക്യമാണ് നമുക്ക് ലഭിക്കുന്നത് ഇത് എക്സ്ട്രീമയിലെ പോയന്റിൽ അത് അംഗീകൃതമാവണം അതുപോലെ ഈ സമവാക്യം ϕxy0 പരിമിതിയാണ് അപ്പോൾ ഇനി എക്സ്ട്രീമയമായിട്ട് ഏതൊരു പോയന്റായാലും ആ പോയന്റിൽ ഈ വ്യവസ്ഥ നിറവേറ്റണം കാരണം x ലും y ലും ഉള്ള ബന്ധം ഈ ബന്ധവുമായി തൃപ്തിപ്പെടണം എന്നത്പ്രശ്നത്തിൽ തന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരവസ്ഥയിൽ ഏത് പോയന്റിലും എക്സ്ട്രീമ ലഭിച്ചാലും എല്ലാ പോയന്റിലും ഫംഗ്ഷൻ നിറവേറ്റപ്പെടണം അപ്പോൾ സ്വാഭാവികമായും എക്സ്ട്രീമയുള്ള പോയന്റിലും അത് നിറവേറ്റപ്പെടും നമ്മൾ x ന് അനുസൃതമായിട്ട് ഡെറിവേറ്റീവ് എടുക്കുകയാണെങ്കിൽ ഈ സമവാക്യത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്നതാണ് ഈ കാണുന്ന സമവാക്യം അതായത് ഇതിനെ ഡിഫ്റൻഷ്യേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് അപ്പോൾ നമുക്ക് x ന് അനുസൃതമായിട്ടുള്ള ഒരു ഭാഗിക ഡെറിവേറ്റീവും പിന്നെ ചെയിൻ റൂളും അതിലേക്ക് ∂f∂y dydx0 കൂട്ടുകയും ചെയ്യുമ്പോൾ പൂജ്യം എന്ന് ലഭിക്കും അപ്പോൾ എക്സ്ട്രീമയിലെ പോയന്റിൽ നിറവേറപ്പെടുന്ന മറ്റൊരു സമവാക്യം ലഭിച്ചു ഇനി നമുക്ക് എല്ലാം ഭാഗിക ഡെറിവേറ്റീവിന്റെ പദങ്ങളിൽ ലഭിക്കാൻ വേണ്ടി ഈ dydx എന്ന പദത്തെ ഈ രണ്ട് സമവാക്യത്തിൽ നിന്നും ഒഴിവാക്കാൻ ശ്രമിക്കാം അപ്പോൾ നമുക്ക് ഈ രണ്ടാമത്തെ സമവാക്യത്തിന്റെ ഇടതുഭാഗത്ത് ∂ϕ∂x∂ϕ∂y dydx നോട് കൂടെ fyϕyയെ ഗുണിക്കാം പദ്ധതി എന്താണെന്ന് വെച്ചാൽ ഈ ϕy യും ϕy യും വെട്ടിപോവും പിന്നീട് നമുക്ക് dydx ഉം ∂f∂y യും പിന്നെ ഇവിടെ ∂f∂y യും dydx ഉം ലഭിക്കും അപ്പോൾ ഇവ രണ്ടും വെട്ടി പോവും നമുക്ക് dydx ൽ നിന്നും സ്വതന്ത്രമായ പദം ലഭിക്കും അപ്പോൾ ഇവിടെ നമ്മൾ കൂട്ടിയപ്പോൾ എളുപ്പത്തിനു വേണ്ടി ഇവിടെ λ യാണെന്ന് ഉദ്ദേശിച്ചാൽ ഈ പദങ്ങൾ വെട്ടി പോകും അപ്പോൾ ∂f∂xλ ∂ϕ∂x0 എന്ന് ലഭിക്കും ഈ ലഭിച്ച സമവാക്യം എക്സ്ട്രീമയിലെ പോയന്റിൽ നിറവേറ്റപ്പെടണം ഇതൊരു സമവാക്യമാണ് ഇനി λ വന്നതുകൊണ്ട് മറ്റൊരെണ്ണം കൂടിയുണ്ടാവും ഇവിടെനിന്നും നമുക്ക് ∂f∂yϕy λ എന്ന ഒരു ബന്ധം ലഭിക്കും നമുക്ക് നിറവേറ്റപ്പെടേണ്ട മറ്റൊരു ബന്ധം കൂടെയുണ്ട് നമ്മുടെ അടുത്ത് ϕxy0 എന്ന സമവാക്യം ഉണ്ട് അപ്പോൾ ഈ മൂന്ന് സമവാക്യങ്ങളും എക്സ്ട്രീമയുടെ പോയന്റിൽ നിറവേറ്റപ്പെടേണ്ടതുണ്ട് ഇനി മുന്നോട്ടു പോവുമ്പോൾ എക്സ്ട്രീമയിലെ പോയന്റിൽ നിറവേറ്റപ്പെടേണ്ട സമവാക്യങ്ങൾ ഇവയാണെന്ന് നമ്മൾ ചർച്ച ചെയ്തു ഇവിടെ നമുക്ക് മൂന്നു ഘടകങ്ങളുണ്ട് മൂന്ന് അറിയാത്ത ഘടകങ്ങളുണ്ട് x y എന്ന പോയന്റിനെ ആണ് നമ്മൾ നോക്കുന്നത് അതുപോലെ നമ്മൾ പരിചയപ്പെടുത്തിയ λ യും അതായത് ഒരു x ഉം y ഉം λ യും നമുക്ക് ഈ മൂന്ന് സമവാക്യങ്ങൾ പരിഹരിക്കുന്നതിലൂടെ മൂന്ന് പോയന്റുകൾ ലഭിക്കും അവ x y യിൽ എക്സ്ട്രീമയിലെ പോയന്റുകളാവും നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്ത ഈ ലാഗ്റേഞ്ച് ഗുണിത സംഖ്യ മാർഗ്ഗത്തിൽ ഈ സമവാക്യങ്ങൾ ഉണ്ടാക്കാനുള്ള മാർഗ്ഗം എളുപ്പത്തിൽ ഓർത്തു വെക്കാൻ ഒരു വഴിയുണ്ട് ഒരു വഴി നമ്മൾ കുറച്ചു മുൻപ് കണ്ട കുറച്ച് വലിയ ഡെറിവേഷൻ ആണ് ഇനി നമ്മൾ ഇവിടെ എഴുതാൻ പോകുന്നത് ഒന്നുകൂടെ കണിശമായ കൂടുതൽ എളുപ്പത്തിൽ കഴിയുന്നതും ഈ സമവാക്യങ്ങൾ നേരിട്ട് ലഭിക്കുന്നതുമായ ഒരു മാർഗമാണ് അപ്പോൾ നമുക്ക് ufxy എന്നതിനെ മിനിമൈസ് ചെയ്യുകയോ മാക്സിമൈസ് ചെയ്യുകയോ ചെയ്യുന്ന ഒരുപ്രശ്നമുണ്ട് ഈ അവസ്ഥയിൽ x y ഈ ബന്ധത്തെ നിറവേറ്റുകയും ചെയ്യണം ഇതിനെ നമ്മൾ ഒരു ഓക്സില്ലറി ഫംഗ്ഷൻ കൊണ്ട് നിർവചിക്കാം അതായത് Fxyλfxyλ ϕxy എന്ന് നിർവചിക്കാം നമുക്ക് മിനിമൈസോ മാക്സിമൈസോ ചെയ്യേണ്ട ഈ fx y യിലേക്ക് λ തവണ നിബന്ധനയായ ϕxy യും കൂട്ടും അപ്പോൾ നമുക്ക് അങ്ങനെയൊരു ഓക്സില്ലറി ഫംഗ്ഷൻ പരിചയപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ട് യഥാർത്ഥത്തിൽ ഈ പദ്ധതി വിപുലീകരിക്കേണ്ടത് ϕ 1 ϕ 2 എന്നിങ്ങനെ ധാരാളം നിബന്ധനകൾ ഉള്ളപ്പോഴാണ് അപ്പോൾ നമുക്ക് വീണ്ടും λ1 ϕ1λ2 ϕ2 എന്നതിനെ പരിചയപ്പെടുത്തണം അപ്പോൾ നമുക്ക് കൂടുതൽ λ കളെ പരിചയപ്പെടുത്തണം നമ്മൾ ഇവിടെ ഒരു നിബന്ധനയുടെ കീഴിലുള്ളതാണ് ചർച്ചചെയ്യുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെടുത്തുന്ന ഓക്സില്ലറി ഫംഗ്ഷൻ ഇതാണ് ശേഷം നമ്മൾ f ന്റെ എക്സ്ട്രീമക്ക് ആവശ്യമായിട്ടുള്ള വ്യവസ്ഥകൾ കാണണം അതായത് ഈ ഡെറിവേറ്റീവ് Fx0 Fy0 Fλ0 എന്നിവ ഇവിടുത്തെ F ന്റെ ക്രിട്ടിക്കൽ പോയന്റ് കാണാൻ ആവശ്യമാണ് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മൾ കണ്ടെത്തിയ ആ സമവാക്യങ്ങൾ എക്സ്ട്രീമയുടെ സമവാക്യങ്ങൾ ആ സമവാക്യങ്ങൾ നിറവേറ്റപ്പെടണം എന്നത് നമുക്ക് വ്യക്തമായി ലഭിക്കും ഇനി നമ്മൾ x ന് അനുസൃതമായിട്ട് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമുക്ക് fxλϕx എന്ന് ലഭിക്കും അതായത് ഈ Fx0 എന്നത് എടുക്കുമ്പോൾ നമുക്ക് fxλϕx എന്നാവും ഇതായിരുന്നു അവിടുത്തെ നമ്മുടെ ആദ്യത്തെ സമവാക്യം അതുപോലെ Fy0 വീണ്ടും fyλϕy0 ഇതാണ് അവിടെ കുറിച്ചിരിക്കുന്ന രണ്ടാമത്തെ സമവാക്യം മൂന്നാമത്തേത് Fλ0 അത് വെറും ϕ0 എന്നാവും അപ്പോൾ നമുക്ക് ഈ മൂന്ന് സമവാക്യങ്ങളെയും ഈ ഓക്സില്ലറി ഫംഗ്ഷൻ ഇവിടെ F കൊണ്ട് കണ്ടെത്താവുന്നതാണ് ഇവിടെ ഈ fx y യെ അതുപോലെ പകരം വെക്കുക അതുപോലെ ഒരു λ യെ അവതരിപ്പിക്കുകയും ചെയ്യുക ഇവിടെ നമുക്ക് ഒരു പരിധി മാത്രമാണ് ഉള്ളത് അതിനാൽ λ ϕxy ഈ പദ്ധതി നമുക്ക് ധാരാളം പരിധികളുള്ളതിലേക്കും വിപുലീകരിക്കാം ഉദാഹരണത്തിന് നമുക്ക് രണ്ട് പരിധികൾ അതായത് ϕ1 xy 0 യും ϕ2 xy 0 യും ഉണ്ട് അപ്പോൾ കൂടുതൽ λ കൾ നമ്മൾ അവിടെ അവതരിപ്പിക്കേണ്ടി വരും അതായത് λ1 ϕ2 xyλ2 ϕ2 xy ശേഷം വീണ്ടും നമുക്ക് ഈ ആവശ്യ വ്യവസ്ഥകളെ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇവിടെ രണ്ട് λ കൾ ഉണ്ടാവും അപ്പോൾ രണ്ട് അതായത് ഒരു സമവാക്യം കൂടെ വരും അത് λ1 ന് അനുസൃതമായിട്ടോ അല്ലെങ്കിൽ λ2 വിന് അനുസൃതമായിട്ടോ ആയിരിക്കും അപ്പോൾ മറ്റൊരു പരിധി കൂടി ഇവിടെ പ്രത്യക്ഷപ്പെടും അതുപോലെ അവിടെ കുറച്ച് അധികം പദങ്ങളും ഈ ഒരേയൊരു പരിധിയെ കുറിച്ചും ഈ ലാഗ്റേഞ്ച് ഗുണിതസംഖ്യ മാർഗ്ഗത്തിന്റെ ഉപയോഗത്തിലൂടെ നമുക്ക് ഒരു സ്റ്റേഷനറി പോയന്റോ അല്ലെങ്കിൽ അതിന്റെ എക്സ്ട്രീമക്ക് വേണ്ടിയുള്ള കാന്ഡിഡേറ്റുകളോ ലഭിക്കുമെന്നുള്ളതിനെ പറ്റിയോ ചർച്ച ചെയ്യാം ഇതാവും എക്സ്ട്രീമക്ക് വേണ്ടിയുള്ള കാന്ഡിഡേറ്റുകൾ നമ്മൾ ഈ പോയിന്റിന്റെ സ്വഭാവം കണക്കുകൂട്ടുകയില്ല ഇത് ലോക്കൽ മിനിമത്തിന്റെ പോയന്റാണോ ലോക്കൽ മാക്സിമത്തിന്റെ പോയന്റാണോ എന്ന് നമ്മൾ നോക്കുകയില്ല പ്രയോഗത്തിലുള്ള സ്റ്റേഷനറി പോയന്റിന്റെ സ്വഭാവം നമ്മൾ കണ്ടെത്തുന്നില്ല അധികപ്രശ്നങ്ങളിലും നമ്മൾ മാക്സിമയും മിനിമയും കാണാനാവും താൽപര്യപ്പെടുന്നത് അതുതന്നെ തന്നിരിക്കുന്ന പരിധികൾക്കുള്ളിലെ ഗ്ലോബൽ മിനിമവും ഗ്ലോബൽ മാക്സിമയും അപ്പോൾ ഇന്ന് ഈ ലക്ചറിൽ ലാഗ്റേഞ്ച് ഗുണിത സംഖ്യ ഉപയോഗിച്ച് എല്ലാ കാന്ഡിഡേറ്റുകളെയും കണ്ടെത്തും മാക്സിമം മിനിമം എന്നിവ സംഭവിക്കുന്ന ഇടങ്ങളെ ക്രിട്ടിക്കൽ പോയന്റ് എന്ന് വിളിക്കുന്നു അപ്പോൾ നമ്മൾ ഈ എല്ലാ നിർണായക പോയന്റുകൾ കണ്ടെത്തുകയും ഫംഗ്ഷന്റെ ഇവിടുത്തെ മൂല്യം കണ്ടെത്തുകയും ചെയ്യും അപ്പോൾ നമുക്ക് ഏതാണ് മാക്സിമത്തിന്റെ പോയന്റായ ഗ്ലോബൽ മാക്സിമം എന്നോ അല്ലെങ്കിൽ ഏതാണ് ഗ്ലോബൽ മിനിമത്തിന്റെ പോയന്റ് എന്നും കണ്ടെത്താൻ സാധിക്കും സാധാരണ കുറച്ച് കാന്ഡിഡേറ്റുകൾ മാത്രമേ ക്രിട്ടിക്കൽ പോയന്റുകൾ ആയിട്ടുള്ളൂ അപ്പോൾ നമുക്കിവിടെ എല്ലാമുള്ള f നെ വിലയിരുത്താനും ഇതിലെ ഏറ്റവും ചെറുതിനെയും വലുതിനെയും തിരഞ്ഞെടുക്കാനും സാധിക്കും ഇപ്പോൾ അബ്സല്യൂട്ട് മിനിമവും മാക്സിമവും മാത്രമാണ് നമ്മുടെ ലക്ഷ്യം അതിനുവേണ്ടി കൂടുതൽ ടെസ്റ്റുകളുടെ ആവശ്യമില്ല അപ്പോൾ ഇനി ഈ പോയന്റ് ഒരു ലോക്കൽ മാക്സിമത്തിന്റെ ആണോ അതോ സാഡിൽ പോയിന്റിന്റെയാണോ എന്നത് കണക്കുകൂട്ടാൻ വീണ്ടും ഒരു ടെസ്റ്റിന്റെ ആവശ്യമില്ല അതിനേക്കാൾ നമ്മൾ നോക്കുന്നത് ഈ തന്നിരിക്കുന്ന പരിധികൾക്ക് കീഴിലുള്ള ഈപ്രശ്നത്തിന്റെ ഗ്ലോബൽ മാക്സിമവും മിനിമവും ആണ് ഇനി നമുക്ക് ഉദാഹരണത്തിലേക്ക് കടക്കാം ഇവിടെ നമുക്ക് x2 y2 2x എന്ന ഫംഗ്ഷന്റെ x2y2≤1 എന്ന പ്രദേശത്തെ മിനിമം അല്ലെങ്കിൽ മാക്സിമം ആണ് വേണ്ടത് അപ്പോൾ ഈ തന്നിരിക്കുന്നതാണ് ഇതിന്റെ പരിധി നമുക്ക് x y ഈ x2y21 എന്നത് നിറവേറ്റുന്ന പരിധിക്കുള്ളിൽ x2 y2 2x ഫംഗ്ഷന്റെ മിനിമം അല്ലെങ്കിൽ മാക്സിമം കാണുകയാണ് വേണ്ടത് അപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് ഈ ഡിസ്കിനെ അതിന്റെ അതിരുകളോടുകൂടിയാണ് അതായത് ഈ വൃത്തം ഉൾപ്പെടെ അപ്പോൾ x ഉം y ഉം ഈ പ്രതലത്തിനുള്ളിൽ നിയന്ത്രിക്കപ്പെട്ടിരിക്കുന്നു അപ്പോൾ x നും y ക്കും മേൽ നിയന്ത്രണമുണ്ട് ഇതൊരു പരിധിക്ക് മേലുള്ളപ്രശ്നമാണ് ഇതിനെ നമുക്ക് രണ്ടു രീതിയിൽ കൈകാര്യം ചെയ്യാം ഈ എല്ലാപ്രശ്നങ്ങളിലും നമുക്ക് ഇങ്ങനെയൊരു കാരണം ഉള്ളപ്പോൾ അതായത് x2y21 എന്നതാണ് ഇവിടുത്തെ അതിര് നമ്മൾ ഇതിനെ രണ്ടുപ്രശ്നങ്ങളായി വിഭജിക്കും നമ്മളീ x2 y2 2x എന്നപ്രശ്നത്തിന്റെ ഈ ഒരു പ്രതലത്തിലെ മാക്സിമം അല്ലെങ്കിൽ ക്രിട്ടിക്കൽ പോയന്റ് കാണും പിന്നീട് അതിരുകളിൽ അതായത് x2 y21 എന്ന കൃത്യമായ നിയന്ത്രണത്തിൽ ഇതു തന്നെയാണ് നമുക്ക് ലാഗ്റേഞ്ച് ഗുണിത സംഖ്യ ഉപയോഗിച്ച് നമുക്ക് ലഭിക്കുന്നത് നമ്മൾ പ്രതലത്തിനുള്ളിൽ ഉള്ളതിനെ കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ ഇത് x2y21 എന്നാവും ഇവിടെ നമ്മുടെ പ്രതലം ഓപ്പണാണ് ഇവിടെ നമ്മൾ മുമ്പത്തെ ലക്ചറിൽ ചർച്ച ചെയ്തിട്ടുള്ള തന്ത്രം ഉപയോഗിക്കണം നമ്മൾ ക്രിട്ടിക്കൽ പോയന്റ് നേരിട്ട് കാണും എന്നിട്ട് ഏതെങ്കിലും ക്രിട്ടിക്കൽ പോയന്റുകൾ ഈ പ്രദേശത്ത് നിലകൊള്ളുന്നുണ്ടോ എന്ന് നോക്കും അപ്പോൾ നമ്മൾ അവയെ കൂടുതൽ f ന്റെ ആ പോയന്റിലെ വിലയിരുത്തലുകൾക്ക് എടുക്കും ക്രിട്ടിക്കൽ പോയന്റുകൾ ഈ ഡൊമെയ്നിന് അകത്തല്ല പകരം പുറത്താണെങ്കിൽ അവയെ നമുക്ക് ഒഴിവാക്കാം കാരണം അവ നമ്മുടെ താല്പര്യം അല്ല ഈ പ്രശ്നത്തെ രണ്ടു ഭാഗങ്ങളാക്കി എടുത്തു ഒന്ന് ക്രിട്ടിക്കൽ പോയിന്റ് അല്ലെങ്കിൽ ഈ ഡൊമെയ്നിന് അകത്തുള്ള ലോക്കൽ മിനിമത്തിനും എക്സ്ട്രീമക്കും ഉള്ള കാന്ഡിഡേറ്റുകൾ അതിനാൽ x2y21 അതിരിലുള്ള മാക്സിമയും മിനിമയും കണ്ടെത്തുന്നതും മറ്റൊരു പ്രശ്നമാണ് അപ്പോൾ നമുക്ക് ആദ്യം ഡൊമെയ്നിന് ഉള്ളിലേക്ക് നീങ്ങാം ഉള്ളിൽ എന്ന് പറയുമ്പോൾ അത് x2y21 ആണ് ഇവിടെ മുമ്പത്തെ ലക്ച്ചറിൽ പറഞ്ഞിട്ടുള്ളതായിട്ടല്ലാത്ത ഒരു തന്ത്രവും ഉപയോഗിക്കേണ്ടതില്ല നമുക്ക് ഉള്ളത് fxyx2 y2 2x ആണ് ഇവിടുത്തെ fx നമ്മൾ കാണും അത് തരുന്നത് x1 എന്നാണ് fy0 ആണ് അപ്പോൾ നമുക്ക് y0 എന്ന് ലഭിക്കും അപ്പോൾ fx y0 എന്നതിൽ നമ്മൾ കാണുന്ന ക്രിട്ടിക്കൽ പോയന്റ് എന്നത് പൂജ്യവും ഒന്നും മാത്രമാണ് പക്ഷേ ഈ ഒന്നും പൂജ്യവും നമ്മുടെ ഇതിനകത്ത് വരുന്നില്ല ഇവിടെ തീർച്ചയായും ഇതാണ് അതിർത്തിയിലുള്ള പോയന്റ് പക്ഷേ ഇതിനെ നമ്മൾ അടുത്ത സ്ലൈഡിലെ അതിര് പരിഗണിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കും അപ്പോൾ ഇവിടെ ഒരു ക്രിട്ടിക്കൽ പോയന്റും ഇതിനകത്തില്ല ഒന്നുകിൽ ഇതിന് പുറത്താവും അല്ലെങ്കിൽ കൃത്യമായി അതിരുകളിലാവും ഇരിക്കുന്നത് ഈ പോയന്റ് ചിലപ്പോൾ നമ്മൾ പരിഗണിക്കുന്ന ഡൊമൈനിൽ നിന്നും തികച്ചും പുറത്തായിരിക്കും അപ്പോൾ ഇനി ഒരു കാരണവശാലും ഇതിന് അകത്തുള്ള മാക്സിമയും മിനിമയും നമ്മൾ ഈപ്രശ്നത്തിന്റെ മറ്റൊരു പാതിയിൽ നോക്കില്ല ഇത് തീർച്ചയായും അതിരിൽ വരുന്ന ഒരു പോയന്റാണ് ഇത് താനെ ഈ പ്രദേശത്തിൽ വരും അപ്പോൾ നമ്മൾ അതിരുകളിലെ ക്രിട്ടിക്കൽ പോയന്റ് കാണുമ്പോൾ നമ്മൾ ചർച്ച ചെയ്യും അപ്പോൾ അടുത്തപ്രശ്നം എന്നത് നമ്മൾ ഇനി x2y21 എന്ന അതിർത്തിയിലെ ലോക്കൽ എക്സ്ട്രീമയാണ് നോക്കാൻ പോകുന്നത് മാക്സിമയും മിനിമയും ഈ അതിർത്തിയിൽ കാണുന്നതാണ് ഈപ്രശ്നം ഇനി നമ്മൾ ലാഗ്റേഞ്ച് ഗുണിത സംഖ്യ ഉപയോഗിച്ച് പരിഹരിക്കും ഇവിടെ നമുക്ക് കൃത്യമായും x2y21 എന്ന പരിധിയാണ് ഉള്ളത് അതിനുവേണ്ടി നമുക്ക് ഒരു ഓക്സിലറി ഫംഗ്ഷൻ നിർവ്വചിക്കേണ്ടതുണ്ട് അപ്പോൾ അത് ഈ ഫംഗ്ഷൻ തന്നെയാവും λx2y2 1 അപ്പോൾ നിങ്ങൾ fx0 എന്ന ക്രിട്ടിക്കൽ പോയന്റുകൾ കാണും അത് 2x 22x എന്ന് തരും ശേഷം ഇതിനെ ലഘൂകരിക്കാം അപ്പോൾ x1λ0 എന്ന് കിട്ടും ഇവിടെ വീണ്ടും ഒന്നു നോക്കാൻ വേണ്ടി x ന് അനുസൃതമായിട്ട് നമുക്ക് എന്താണ് കിട്ടിയതെന്നാൽ നമുക്ക് 2x കിട്ടി പിന്നെ 2 ഉം ഇവിടെ അതിലേക്ക് ഈ λ ഉം കൂടെ കൂട്ടി കിട്ടി പിന്നെ ഇവിടെ 2x0 എന്നതും സ്ഥിരപ്പെടുത്തുകയും വേണം അപ്പോൾ എല്ലായിടത്തുനിന്നും ഈ 2 പോകും അപ്പോൾ നമുക്ക് xλx ലഭിക്കും x നെ പൊതുവായിട്ട് എടുക്കുമ്പോൾ നമുക്ക് 1λ ലഭിക്കുന്നു പിന്നെയുള്ളത് ഈ 1 ഇത് അപ്പുറത്തേക്ക് പോവുമ്പോൾ 1 ആവും അപ്പോൾ ഇത് x1λ1 എന്നാവും പിന്നെ fy0 ആണ് അപ്പോൾ നമുക്ക് λ യെയും x നെയും കോൺസ്റ്റൻന്റുകൾ ആയി കണ്ട് y ക്ക് അനുസൃതമായി ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു അപ്പോൾ നമുക്ക് yλ 10 എന്ന മറ്റൊരു പോയന്റ് ലഭിക്കുന്നു λ ക്ക് അനുസൃതമായിട്ട് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ കൃത്യമായി നമുക്ക് നമ്മുടെ പരിധി തന്നെ ലഭിക്കും അതായത് x2y20 ഇനി നമുക്ക് ഈ മൂന്ന് സമവാക്യങ്ങൾ പരിഹരിക്കുന്നതിലൂടെ കിട്ടുന്ന പോയന്റുകളിലൂടെ ക്രിട്ടിക്കൽ പോയന്റുകൾ ലഭിക്കുന്നു ഈ പോയന്റുകൾ ആയിരിക്കും ഈപ്രശ്നത്തിന്റെ ലോക്കൽ മാക്സിമം അല്ലെങ്കിൽ മിനിമത്തിനുള്ള കാന്ഡിഡേറ്റുകൾ നമ്മുടെ അടുക്കൽ ഈ മൂന്ന് വ്യവസ്ഥകളാണ് ഉള്ളത് ഈ മൂന്ന് സമവാക്യങ്ങൾക്കാണ് നമുക്ക് പരിഹാരം കാണേണ്ടത് നമുക്ക് മധ്യത്തിൽ ഉള്ളതിനെ വെച്ച് തുടങ്ങാം ഇത് λ1 അല്ലെങ്കിൽ y0 അല്ലെങ്കിൽ രണ്ടും ഉള്ളപ്പോഴാണ് ഇത് നിറവേറ്റപ്പെടുന്നത് ഇവിടെ അപ്പോൾ നമ്മൾ y0 എന്ന് ആദ്യം കൊടുക്കുകയാണെങ്കിൽ y0 എന്ന് ഇവിടെ നമുക്ക് കരുതാം അപ്പോൾ ഈ സമവാക്യം നിറവേറ്റപ്പെടുന്നുണ്ട് ഇനി y0 എന്നതിന് മൂന്നാമത്തെ സമവാക്യത്തിൽ ഇത് കൊടുക്കുമ്പോൾ നമുക്ക് x21 എന്ന് ലഭിക്കും അതായത് x±1 എന്നതിൽ ഈ സമവാക്യം നിറവേറ്റപ്പെടും ഇനി നമുക്ക് y0 യും x±1 എന്നീ 2 സമവാക്യങ്ങളും നിറവേറ്റപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇടത് ഭാഗത്ത് നിന്നും നമുക്ക് x±1 എന്ന് ലഭിക്കും അപ്പോൾ x എന്നത് 1 ആണെങ്കിൽ നമുക്ക് 1λ1 എന്ന് ലഭിക്കും അപ്പോൾ ആ ഒരു അവസ്ഥയിൽ λ എന്നത് പൂജ്യമായിരിക്കും ഇനി x 1 ആണെങ്കിൽ ആ ഒരു അവസ്ഥയിൽ നമുക്ക് 1λ1 എന്ന് ലഭിക്കും അതായത് ഇവിടെ λ 2 എന്നാവും ഇപ്പോൾ ആദ്യത്തെ സമവാക്യത്തിൽ നിന്നും λ0 2എന്ന് ലഭിച്ചു λ0 λ2 അപ്പോൾ ഏതൊക്കെയാണ് ഇവിടുത്തെ നമ്മുടെ പോയന്റുകൾ x1 y0 λ0 എന്നിവയാണ് നമ്മുടെ പോയന്റുകൾ ഈ മൂന്ന് സമവാക്യങ്ങളെയുംതൃപ്തിപ്പെടുത്തുന്ന പോയന്റ് ഇതാണ് രണ്ടാമത്തെ പോയന്റായി നമുക്കുള്ളത് 102 എന്നതാണ് ഈ സമവാക്യങ്ങളെ നിറവേറ്റാൻ സാധിക്കുന്ന മറ്റൊരു പോയന്റ് ഇതാണ് ഇവിടെ നിന്ന് നമുക്ക് λ1 എന്ന മറ്റൊരു സാധ്യത കൂടെ ഉണ്ട് അപ്പോൾ ഇവിടെ നിന്നും എന്ന് എടുക്കുകയാണെങ്കിൽ λ1 ആവുമ്പോൾ നമുക്ക് ആദ്യ സമവാക്യത്തിൽ നിന്നും x ലഭിക്കും സമവാക്യം അനുസരിച്ച് λ1 ആവുമ്പോൾ x എന്നത് 12 ആവണം x12 ആയതുകൊണ്ട് നമുക്ക് x12 λ1 എന്ന് ലഭിക്കും ഇവിടെ നിന്നും നമുക്ക് y ലഭിക്കും y21 14 ഇതിൽ നിന്നും y±√32 എന്ന് ലഭിക്കും അപ്പോൾ മറ്റു പോയന്റുകൾ കൂടെ നമുക്ക് ലഭിച്ചു അപ്പോൾ നമ്മുടെ പോയന്റുകൾ x½ ഉം y±√32 ഉം ആണ് ഇത് ഈ മൂന്നു സമവാക്യങ്ങളെയുംനിറവേറ്റാൻ കഴിയുന്ന ഒരു പോയന്റാണ് പിന്നെ വീണ്ടും നമുക്ക് x½ എന്നും പിന്നെ √32 ഉം പിന്നെ ഇവിടെ വീണ്ടും 1 ഉം ലഭിക്കും ഇത് ഈ മൂന്നു സമവാക്യങ്ങളെയുംനിറവേറ്റാൻ കഴിയുന്ന മറ്റൊരു പോയന്റാണ് ഇവയെല്ലാം സാധ്യതകളാണ് ഈ സമവാക്യങ്ങൾ നിറവേറ്റുന്ന കൂടുതൽ സാധ്യതകൾ ഒന്നും നമുക്കിനി ഇല്ല അപ്പോൾ എക്സ്ട്രീമക്ക് വേണ്ടിയുള്ള കാന്ഡിഡേറ്റുകളെ ഞാനിവിടെ x y പോയന്റുകൾക്കനുസരിച്ച് എഴുതുകയാണ് കാരണം നമ്മൾ ഫംഗ്ഷന്റെ x y യിലുള്ള മൂല്യമാണ് കണക്കാക്കുന്നത് λ നമുക്ക് ഇവിടെ താല്പര്യം ഉള്ളതല്ല അപ്പോൾ നമ്മുടെ കാന്ഡിഡേറ്റുകളായി ±10 ഉണ്ട് ഇവയാണ് ആദ്യ രണ്ട് പോയന്റുകൾ പിന്നെ 12 ±√32 എന്ന ഈ രണ്ട് പോയിന്റുകളും അപ്പോൾ ഇവയാണ് എക്സ്ട്രീമക്ക് വേണ്ടിയുള്ള കാന്ഡിഡേറ്റുകൾ അപ്പോൾ നമ്മൾ ഈ ±1 0 12 ±√32 എന്നിവിടങ്ങളിലെ ഫംഗ്ഷന്റെ മൂല്യം കണക്കു കൂട്ടും ഇതായിരുന്നു നമ്മുടെ ഫംഗ്ഷൻ അതുപോലെ 1 0 1 0 ഇവിടെ y±√32 എന്നെടുക്കുന്നതും ആണ് നമ്മുടെ പോയന്റുകൾ ഇവിടെ നമുക്ക് ഒരു y2 ആണ് ഉള്ളത് അതുകൊണ്ട് ചിഹ്നമോ ചിഹ്നമോ ഏതെടുത്താലും മൂല്യം തുല്യമായിരിക്കും അപ്പോൾ 10 യിൽ ഫംഗ്ഷന്റെ മൂല്യം എന്നത് ഇവിടെ ഒന്നും ഇവിടെ പൂജ്യവും പിന്നെ ഈ ഒന്നും അതായത് 21 1 അപ്പോൾ 10 എന്ന പോയന്റിൽ ഫംഗ്ഷന്റെ മൂല്യം 1 ആണ് ഇനി 10 എടുക്കുമ്പോൾ x ന് പകരം 1 എടുക്കും അപ്പോൾ അവിടെ നമുക്ക് 1 ലഭിക്കും പിന്നെ ഈ പൂജ്യം ശേഷം ഈ 2 ഉം അപ്പോൾ നമുക്ക് 3 ലഭിക്കും അതുപോലെതന്നെ ഈ പോയന്റിലും ലഭിക്കും കണക്കുകൂട്ടുമ്പോൾ നമുക്ക് 32 ലഭിക്കും അപ്പോൾ മാക്സിമം മൂല്യം ലഭിച്ചിരിക്കുന്നത് 10 എന്ന പോയന്റിൽ ആണെന്ന് നമ്മൾ കണ്ടു ഈ പോയന്റിലെ ഫംഗ്ഷന്റെ മൂല്യം 3 ആണ് ഇപ്പോൾ ഫംഗ്ഷന്റെ മാക്സിമം മൂല്യം 3 എന്നും മിനിമം മൂല്യം ലഭിക്കുന്നത് ഈ രണ്ട് പോയന്റുകളിൽ ആണ് അവിടെ ഫംഗ്ഷന്റെ മൂല്യം 32 ആണ് ഇനി ഈപ്രശ്നത്തിന്റെ എല്ലാ ക്രിട്ടിക്കൽ പോയന്റുകളും കണ്ടെത്തി ഈ എല്ലാ ക്രിട്ടിക്കൽ പോയന്റുകളിലും നമ്മൾ ഫംഗ്ഷന്റെ മൂല്യം കണക്കാക്കി പിന്നീട് ഈ 3 നെ നമ്മൾ മാക്സിമം മൂല്യമായി തിരഞ്ഞെടുത്തു അത് ലഭിച്ചത് 10 യിലാണ് 32 എന്ന ഫംഗ്ഷന്റെ മിനിമം മൂല്യം ലഭിച്ചത് 12 ±√32 എന്ന പോയന്റിൽ ആണ് അടുത്തപ്രശ്നത്തിൽ നമുക്ക് fxyx2y2 എന്ന ഫംഗ്ഷന്റെ 22 ≤ 20 എന്ന പ്രദേശത്തെ മാക്സിമം മൂല്യവും മിനിമം മൂല്യവും കാണാനാണ് ഇവിടെയും നമുക്ക് അതേ പ്രൊബ്ലം തന്നെയാണ് ഇവിടെ പ്രദേശവും x2y2 എന്ന ഫംഗ്ഷനും തന്നിട്ടുണ്ട് അതേ രീതിയിൽ തന്നെ നമ്മൾ ഇതിനെ പരിഹരിക്കും ആദ്യം നമ്മൾ അകത്തുള്ള പോയന്റിലെ എക്സ്ട്രീമക്ക് വേണ്ടി നോക്കും അതായത് ഇത് വ്യക്തമായും 20 ന് താഴെ ആകുമ്പോൾ അപ്പോൾ നമുക്കുള്ളത് ഈ തുറന്ന ഡൊമൈനാണ് ഇതിന് അതിരുകളില്ല നമ്മൾ fx0 കാണുമ്പോൾ നമുക്ക് 2x0 എന്ന് ലഭിക്കും അപ്പോൾ x0 ഇനി നമ്മൾ fy0 കൂട്ടും ഇവിടെ നമ്മൾ കാണുന്നത് y0 എന്നാണ് അപ്പോൾ നമ്മുടെപ്രശ്നത്തിന്റെ ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയുന്നത് പൂജ്യത്തിൽ ആണ് ഇത് മാത്രമാണ് ഡൊമൈനിന് ഉള്ളിൽ വരുന്ന പോയന്റ് അപ്പോൾ നമുക്ക് 00 എന്ന പോയന്റ് ഈ പദത്തിൽ തന്നെയാണെന്ന് ലഭിച്ചു ഇനി ഇത് ഉപയോഗിച്ച് ഫംഗ്ഷൻറെ മൂല്യം കാണും അത് പറയും ഫംഗ്ഷന് ഈ പോയന്റിൽ ഉള്ളത് ലോക്കൽ മിനിമം ആണോ അതോ ഗ്ലോബൽ മിനിമം ആണോ എന്ന് അപ്പോൾ അതിലെ ലോക്കൽ എക്സ്ട്രീം കാണാൻ വേണ്ടി നമ്മൾ അതിരുകളിലെ പോയന്റിനെ ഉപയോഗിക്കും അതായത് 22 20 അപ്പോൾ ഇതിന് തുല്യതയുടെ ചിഹ്നമാണ് ഇനി നമ്മൾ ലാഗ്റേഞ്ച് ഗുണിത സംഖ്യ മാർഗ്ഗം ഉപയോഗിക്കും പ്രശ്നത്തിൽ നമുക്ക് ഈ പരിധികൾ മാനിച്ചു കൊണ്ട് ഈ ഫംഗ്ഷനിനെ മിനിമൈസ് അല്ലെങ്കിൽ മാക്സിമൈസ് ആണ് ചെയ്യേണ്ടത് അപ്പോൾ പതിവുപോലെ നമ്മൾ ഓക്സിലറി ഫംഗ്ഷനിനെ പരിചയപ്പെടുത്തുകയും ഈ λ യെ പരിമിതിയുടെ മുന്നിൽ വച്ചു കൊടുക്കുകയും ചെയ്തു x നും y ക്കും അനുസൃതമായും λ ക്ക് ഭാഗികമായും F നെ ഡിഫറെൻശ്യേറ്റ് ചെയ്ത് ക്രിട്ടിക്കൽ പോയന്റുകൾ കാണണം അപ്പോൾ Fx 0 എന്ന ഡിഫറെൻശ്യേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഈ സമവാക്യം ലഭിക്കും അതുപോലെ Fy0 വച്ച് ഈ സമവാക്യവുംFyz0 വെച്ച് ഈ സമവാക്യവുംലഭിക്കും ഈ മൂന്ന് സമവാക്യങ്ങളിൽനിന്നും നമുക്ക് ക്രിട്ടിക്കൽ പോയന്റുകൾ കണ്ടുപിടിക്കണം സമവാക്യത്തിൽ നിന്നും നമ്മൾ എന്നതിനെ λ യുടെ പദങ്ങളിൽ എഴുതും രണ്ടാമത്തെ സമവാക്യത്തിൽ നിന്നും നെ λ യുടെ പദങ്ങളിൽ എഴുതും ഇവിടെ നമ്മൾ അതിനെ പകരം എഴുതും അപ്പോൾ നമുക്ക് λ യുടെ സാധ്യതയുള്ള മൂല്യങ്ങൾ ലഭിക്കും ഇതുവഴി നമ്മൾ ഇതിനെ പരിഹരിക്കും നമുക്ക് ആദ്യപ്രശ്നം നോക്കാം ഇവിടെ നമുക്കുള്ളത് xλ0 അപ്പോൾ 21λ അപ്പോൾ നമുക്കിവിടെ x 2 6 എന്ന് ലഭിക്കും ഇനി നമുക്ക് 21λയും അതുപോലെതന്നെ ഈ സമവാക്യത്തിൽ നിന്നും 11λ എന്നുo ലഭിക്കും മൂന്നാമത്തെ സമവാക്യത്തിൽ നിന്നും നമുക്ക് ഈ വിനെയും നെയും പകരം വെക്കാം അപ്പോൾ λ യിലുള്ള ഒരു സമവാക്യം ലഭിക്കും ഇതിനെ എളുപ്പത്തിൽ പരിഹരിക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് 1λ±12 എന്ന് ലഭിക്കും ഇവിടെ നിന്നും നമുക്ക് പ്രാഥമികമായി λ യെ ലഭിച്ചു ഈ λ ലഭിച്ചതോടെ നമുക്ക് x ഉം അതിനു അനുസൃതമായിട്ടുള്ള y ഉം ഈ ആദ്യത്തെയും രണ്ടാമത്തെയും സമവാക്യങ്ങളിൽനിന്ന് എഴുതാം ഇവിടെ നിന്നും നമുക്ക് λ 12 32 എന്ന് ലഭിക്കും ഈ സമവാക്യത്തെ അവസാനം തൃപ്തിപ്പെടുത്തുന്ന സാധ്യതകൾ ഇവയാണ് ഈ സമവാക്യത്തിൽ നിന്നും λ 12 ആവുമ്പോൾ നമുക്ക് 1 ഉം λ 32 ആവുമ്പോൾ നമുക്ക് മൂന്നും ആദ്യത്തെ സമവാക്യത്തിൽ നിന്ന് x 26 ലഭിക്കും അപ്പോൾ നമുക്ക് ഈപ്രശ്നത്തിന്റെ ഉത്തരം ലഭിച്ചു അതിനാൽ 2 1 12 ഒരു പോയന്റും മറ്റേത് 63 32ഉം ആണ് അപ്പോൾ സാധാരണ നമ്മൾ x y പോയന്റുകളെ എടുക്കാറുള്ളൂ കാരണം നമുക്ക് ഫംഗ്ഷന്റെ മൂല്യം കാണേണ്ടത് x y പോയന്റിൽ ആണ് അപ്പോൾ നമുക്ക് മൂന്നു പോയന്റുകൾ ഉണ്ട് ഒന്ന് ഉള്ളിലുള്ള 00 മറ്റു രണ്ട് പോയന്റുകൾ 2 1 ഉം 63 യുമാണ് ഇവ മൂന്നിലും ആണ് നമ്മൾ ഫംഗ്ഷന്റെ മൂല്യം കാണുന്നത് 00 യിൽ ഫംഗ്ഷന്റെ മൂല്യം പൂജ്യവും 21 ൽ അത് 5 ഉം 63ൽ x2y2 വിലയിരുത്തുകയാണെങ്കിൽ ഇവിടുത്തെ ഫംഗ്ഷന്റെ fxyx2y2 ആണ് ഇവിടെ ഇത് 5 ആണ് ഇവിടെ 6236945 അപ്പോൾ നമുക്ക് ഈ ഫംഗ്ഷൻ മൂല്യങ്ങളാണ് ലഭിക്കുന്നത് ഇതാണ് ഫംഗ്ഷൻ എടുക്കുന്ന മിനിമം മൂല്യമെന്നത് പൊതുവിൽ സത്യവും ഈ ഫംഗ്ഷനിൽ നിന്ന് നേരിട്ട് ലഭിക്കുന്നതാണ് എന്നും നമുക്ക് മനസ്സിലാക്കാം ഫംഗ്ഷൻ x2y2 ആണ് അപ്പോൾ ഏറ്റവും കുറഞ്ഞ മൂല്യം 0 ആണ് കാരണം അത് പൂജ്യത്തിനേക്കാൾ വലുതോ പൂജ്യത്തിനു തുല്യമായിരിക്കണം അപ്പോൾ കുറഞ്ഞ മൂല്യം 00 യിൽ 0 എന്നതും ഫംഗ്ഷന്റെ മാക്സിമം മൂല്യം 63 യിൽ 45 ഉം ആണെന്ന് നമുക്ക് ലഭിച്ചു അപ്പോൾ ഈപ്രശ്നത്തിൽ മിനിമം മൂല്യം പൂജ്യവും മാക്സിമം മൂല്യം 45 ഉം ആണ് ഇനി അവസാനിപ്പിക്കുകയാണെങ്കിൽ ലാഗ്റേഞ്ച് ഗുണിത സംഖ്യ മാർഗ്ഗം എന്നത് തന്നിരിക്കുന്ന ചില പരിധികളോട് കൂടെ fx y എന്ന ഒരു ഫംഗ്ഷന്റെ മാക്സിമം അല്ലെങ്കിൽ മിനിമം കാണുന്നതാണ് ഇതിന്റെ തന്ത്രം എന്നാൽ ഒരു λ എന്ന എക്സ്പൊണെൻഷ്യൽ ഫംഗ്ഷനെ ɸ യുടെ മുന്നിൽ അവതരിപ്പിക്കുന്നതാണ് പിന്നെ F ന്റെ എക്സ്ട്രീമക്ക് വേണ്ടിയുള്ള അവശ്യഘടകം എന്നത് Fx0 എന്നത് സ്ഥിരപ്പെടുത്തൽ ആണ് അത് നമുക്ക് ഒരു സമവാക്യം തരും Fy0 ആകുമ്പോൾ മറ്റൊരു സമവാക്യവും Fλ0 ആകുമ്പോൾ ϕxy0 ലഭിക്കും മൂന്നു സമവാക്യങ്ങളിൽ നിന്നും നമുക്ക് x y λ എന്നീ എല്ലാ പോയന്റുകളും കണ്ടെത്തണം അപ്പോൾ x y λ യുടെ എല്ലാ സാധ്യമായ മൂല്യങ്ങളിലും ഏതാണ് ഈ മൂന്നു സമവാക്യങ്ങളെയും നിറവേറ്റുന്നത് എന്ന് നോക്കണം എന്നിട്ട് ആ എല്ലാ പോയന്റുകളിലും fx y എന്ന ഫംഗ്ഷന്റെ മൂല്യം കണക്കാക്കണം ഏകദേശം എവിടെയാണ് ഫംഗ്ഷൻ അതിന്റെ മാക്സിമം മൂല്യവും മിനിമം മൂല്യവും കരസ്ഥമാക്കുന്നത് എന്ന് നോക്കണം ഈ മാർഗ്ഗത്തിലൂടെ നമുക്ക്പ്രശ്നത്തിന് ഗ്ലോബൽ മാക്സിമയും മിനിമയും കണ്ടെത്താം നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴാണ് ക്ളോസ് ഉള്ളത് എന്നും അതിരിലെ ഡൊമെയ്നിലും ആണ് നമുക്ക് ഡൊമെയ്നിന്റെ ഉള്ളിലേക്ക് നോക്കണം കാരണം ഇതിനകത്ത് ചില കാന്ഡിഡേറ്റുകളിലാവും ഫംഗ്ഷൻ മാക്സിമവും മിനിമവുമായ മൂല്യങ്ങൾ എടുക്കുന്നത് ചിലപ്പോൾ ഫംഗ്ഷൻ അതിന്റെ എക്സ്ട്രീമ എടുക്കുന്നത് അതിരുകളിലെ പോയന്റുകളിൽ ആവും അപ്പോൾ ഇവയാണ് നമ്മുടെ ലക്ചർ തയ്യാറാക്കാൻ ഉപയോഗിച്ചിട്ടുള്ള റഫറൻസുകൾ